ഇത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് ഡൈഇലക്ട്രിക് മെറ്റീരിയലിന് ഫൈനൈറ്റ് കണ്ടക്റ്റിവിറ്റി ഉണ്ട് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു പ്രത്യേക കേസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിമുലേഷൻ ഡോമൈനിൽ പെർഫെക്ട് മെറ്റൽ ഉണ്ടാവും മെറ്റാലിക് വേവ്ഗൈഡ് മെറ്റാലിക് എയർക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ടക്റ്റിവിറ്റി എന്തായിരിക്കുംഇനിഫിനിറ്റി അല്ലെ അപ്പോൾ ഇതാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇനി PEC പെർഫെക്ട് ഇലക്ട്രിക് കണ്ടക്ടർസിഗ്മ ഇനിഫിനിറ്റി യിലേക്ക് പ്രവണത കാണിക്കുന്നു ഇൻഫിനിറ്റി ഉള്ള ഒന്നിനെ ന്യൂമറിക്കൽ ആക്കാൻ പ്രശ്നമാണ് അതിനാൽ അതിനെ കോഡിലേക്ക് ഇടുന്നതിനു മുമ്പ് നമുക്ക് പരിധി കണ്ടുപിടിക്കേണ്ടതുണ്ട് ഈ എക്സ്പ്രഷന് എന്ത് സംഭവിക്കും സിഗ്മ കൊണ്ട് ഹരിക്കുക അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സിഗ്മ കൊണ്ട് ഹരിക്കുക എന്നിട്ട് ലിമിറ്റ് എടുക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടും എന്തിനോട് സമം ആണ് അതാണ് എനിക്കുള്ളത് അതിനാൽ മെറ്റലിന്റെ പൊസിഷനിൽ ഇലക്ട്രിക് ഫീൽഡ്0 ആയിരിക്കണം ബൌണ്ടറി കണ്ടിഷനുകൾക്ക്അനുസരിച്ച് പക്ഷെ നമ്മുടെ അപ്ഡേറ്റ് ഇക്വേഷനും എനിക്ക് അത് നൽകണം അപ്ഡേറ്റ് ഇക്വേഷനുകൾചില വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങാൻ പാടില്ല ഞാൻ ചില ടൈം ഇൻസ്റ്റന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആക്കുന്നു എന്ന് വിചാരിക്കുക അതായത് t0 ഞാൻ എന്റെ സിമുലേഷൻ തുടങ്ങുന്നു ഞാൻ t0 എന്ന് ഇട്ടു അത് പൂജ്യമായി തുടരുന്നതാണ് നല്ലത് അത് ഇവിടെ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ടെർമ് എന്താവും വിദ്യാർത്ഥി മൈനസ് മൈനസ് വിദ്യാർത്ഥി മൈനസ് അതേ ശരിയാണ് അതിനാൽ എനിക്ക് കിട്ടും മറ്റേ ടെർമ് 0 ആയിരിക്കും അത് എനിക്ക് വളരെ ഉപകാരമുള്ളതാണ് കാരണം PEC യിൽ ഇത് ഞാൻ 0 യിൽ തുടങ്ങിയാൽ അത് 0 ആയി തുടരും വിദ്യാർത്ഥി അതിനാൽ എനിക്ക് വ്യക്തമായി പറയേണ്ടതില്ല അപ്ഡേറ്റ് ഇക്വേഷൻ അത് ഓട്ടോമാറ്റിക് ആയി എനിക്ക് വേണ്ടി ചെയ്തു തരുന്നു അതായത് PEC ലൊക്കേഷനുകളിൽ അപ്ഡേറ്റ് ഇക്വേഷനുകൾ വ്യക്തമായി പ്രവർത്തിപ്പിക്കേണ്ടതില്ല ഒന്നുകിൽ എനിക്ക് അത് ഓരോ സ്റ്റെപ്പിലും വ്യക്തമായി 0 ആയി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇക്വേഷൻ പ്രവർത്തിപ്പിക്കുക അവ അത് 0 ൽ നിലനിർത്തും അപ്പോൾ നമ്മൾ PEC ബൌണ്ടറിയിൽ E യെ 0 ആക്കി തുടങ്ങിയാൽ അത് അങ്ങനെ നിൽക്കും PEC ബൌണ്ടറി കണ്ടിഷൻ വളരെ നിസ്സാരമായി തൃപ്തിപ്പെടുത്തുന്നു നമ്മൾ വളരെ ലളിതമായ 2 കാര്യങ്ങൽൾ ആണ് നോക്കിയത് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലെയിൻ ലോസ്സ് ഇല്ലാതെയും ലോസ്സ്ഉള്ളതും എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരു അപ്ഡേറ്റ് ഇക്വേഷൻ കിട്ടി PEC യും ചെയ്യാൻ വളരെ ലളിതമാണ് ഞാൻ എന്താണ് സൂചിപ്പിക്കുന്നത്ഇവിടെയുള്ള ഇക്വേഷനിൽ എന്തോ തെറ്റുണ്ട് നമുക്ക് അത് കുറച്ചൂടെ ആഴത്തിൽ നോക്കാം കൂടുതൽ പ്രകൃത്യാ ഉള്ള മെറ്റീരിയലുകളുംഡിസ്പെഴ്സിവ് ആണ് എന്ന് നമുക്കെല്ലാം അറിയാം ഇതിന്റെ ഒരു ഭാഗം എനിക്ക് ഇവിടെ ഡിറൈവ് ചെയ്യാൻ കഴിയില്ല ഞാൻ അതിന്റെ ഒരു റഫറൻസ് തരാം ഇലക്ട്രോഡൈനാമിക്സ്നെ കുറിച്ചുള്ള ഗ്രിഫിത്സ് ബുക്കിലെ Griffiths bookഒമ്പതാം അധ്യായം എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഒരു നീല നിറത്തിലുള്ള ബുക്ക് ഇവിടെ അദ്ദേഹം വ്യക്തമായി വിവരിക്കുന്നുണ്ട് സിമ്പിൾ സ്പ്രിംങ്ങും മാസും ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ ഡിസ്പെഴ്സിവ് മീഡിയത്തെഉണ്ടാക്കും ആക്കും എന്ന് എന്താണ് സ്പ്രിംഗ് എന്താണ് മാസ്സ് ഉദാഹരണമായി ഒരു ആറ്റം ന്യൂക്ലിയസ് പിന്നെ ഇലക്ട്രോൺസ് അഥവാ മോഡലിന്മാസ്സ് ഉണ്ട് അവിടെ പോസിറ്റീവ് ആയി ചാർജ് ചെയ്ത ന്യൂക്ലിയസ് ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് അവയ്ക്കിടയിൽ ചില സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉണ്ട് ഒരു ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് അവിടെ വന്നാൽ അവിടെ ഒരു പോളറൈസേഷൻഉണ്ടാവും ഈ മാസ്സിൽ പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് ആയി നിങ്ങൾ എല്ലാ ഫോഴ്സ് ഇക്വേഷനുകളുംforce equations ഒരുമിച്ച് ആക്കിഎന്നിട്ട് അതിലൂടെ പ്രവർത്തിച്ചാൽ അതൊരു ഗംഭീരമായ ഡെറിവേഷൻ ആയിരിക്കും അത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്ന റീഫ്രാക്റ്റീവ് ഇണ്ടെക്സ്ന്റെ ഫ്രീക്വൻസി ഡിപെൻഡൻസ് തരുന്നു നിങ്ങൾ അത് വായിച്ചു നോക്കണം സിമ്പിൾ ഡെറിവേഷന്റെകുറച്ചു പേജുകൾ മാത്രം നമുക്ക് ഈ മോഡലിങ് ന്റെ ഉപസംഹാരം തുടങ്ങാം അപ്പോൾ എന്താണ് സ്പ്രിംഗ് മോഡൽ സ്പ്രിംഗ് മോഡൽ റിസോനൻസസ് റിസോനൻസിനുള്ള ഏറ്റവും ലളിതമായ മോഡൽ ആണ് സ്പ്രിംഗ് നമ്മളെല്ലാരും അത് പഠിച്ചിട്ടുണ്ട് ഉദാഹരണമായി സ്പ്രിംഗിന് ഡാംപിങ് കോഎഫിഷിയന്റ്ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് അനന്തമായി തുടർന്നു കൊണ്ടിരിക്കും അത്കൊണ്ട് റിസോനൻസും അതിനാൽ മെറ്റീരിയലുമായുള്ള ഇലക്ട്രോമാഗ്നെറ്റിക് വേവിന്റെ ഇടപെടലും വിവിധ റിസോനൻസുകൾ ഉണ്ട് ഉദാഹരണമായി റിസോനൻസ് കണ്ടിഷൻ പാലിക്കുന്നു അത് റിസോനൻസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നു അങ്ങനെ അവിടെ ഉള്ളതിനെ ചൂടാക്കുന്നു ഒരു മൈക്രോവേവ് ഓവനിൽ എന്താണ് തത്വം അവിടെ വാട്ടർ മോളിക്യൂൾ ഉണ്ട് അതിന് നിശ്ചിത റിസോനൻസസ് ഉണ്ട് ആ ഫ്രീക്വൻസിയിൽ ഞാൻ ഒരു EM അയക്കുന്നു ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും കൺവെൻഷൻ എന്തെന്നാൽ D പോലുള്ള സിംബൽസ് ആണ് നമ്മൾ ഇത് വരെ ഉപയോഗിച്ചത് ഇത് ടൈം ഡോമെയിൻ പിക്ചർ ആണെന്ന് പറയും എനിക്ക് ഫോറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ച് പറയണം എങ്കിൽ അത് സ്പെക്ട്രൽ കമ്പോണെന്റ്ആണ് ഞാൻ എന്ന് എഴുതും ഇതാണ് ഫ്രീക്വൻസി ഡോമെയിൻ ഗ്രിഫിത്സിലെ Griffithsഈ ചർച്ച അവസാനിപ്പിക്കുബോൾ നിങ്ങൾക്ക് കിട്ടുന്നത്ആണ് ഇത് ന്റെ ഫങ്ക്ഷൻ ആയിരിക്കണം വാക്വം ആയിരിക്കും ഈ റിലേഷൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ എഴുതും ഇത് വളരെ ശരിയാണ് പക്ഷെ ഫ്രീക്വൻസി ഡോമെയിനിൽ ആണ് ടൈം ഡോമായിനിൽ അല്ല ഞാൻ ഗ്രിഫിത്സിൽGriffithsനിന്നുള്ള ഡെറിവേഷൻ കാണിക്കാത്തത് കാരണം അത് എവിടെ നിന്നാണ് വന്നത് എന്ന് വിചാരിക്കുംനമുക്കത് ഊഹിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് റിയലിസ്റ്റിക് മെറ്റീരിയലുമായി ഇടപെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം ഈ റിലേഷൻ ടൈം ഡോമൈനിൽ എഴുതുന്നത് തെറ്റാവും ഫ്രീക്വൻസി ഡോമൈനിൽ മാത്രമാണ് ശരിയായ റിലേഷൻ ആവുന്നത് ഇത് ഒരു വസ്തുതയാണ് നമുക്ക് ഇത് എടുത്തിട്ട് തിരിച്ചു പോയി ഈ പാർട്ട് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവ ഫ്രീക്വൻസി ഡോമെയിനിൽആണ് തൽഫലമായി എന്തായിരിക്കും യഥാർത്ഥത്തിൽ ടൈം ഡോമെയിൻ റിലേഷൻ വിദ്യാർത്ഥി കോൺവല്യൂഷൻ അതേ കോൺവല്യൂഷൻ ഫ്രീക്വൻസി ഡോമെയിനിലെ പ്രോഡക്റ്റ് ആണ് അതായത് ടൈം ഡോമൈനിൽ കോൺവല്യൂഷൻ ആണ് ഞാൻ ടൈം ഡോമെയിനിലേക്ക് പോയാൽ ഇത് ഇങ്ങനെ മാറും കോൺവല്യൂഷൻ ൽ നിന്നും ചില t യിലേക്ക് പോവുംഇവിടെ ഉള്ള അതേ t എനിക്ക് കിട്ടും ലളിതമായ സിഗ്നലും സിസ്റ്റമുകളും അത് t ആയി നിലനിർത്തുന്നു ഉദാഹരണമായിനമ്മുടെ മെറ്റീരിയൽ കോസൽ ആണ് എന്ന വസ്തുത യെ കുറിച്ച് എന്ത് പറയുന്നു ഈ കോസാലിറ്റി റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ചില ടൈമിലെ D ഭാവിയിലെ ടൈം ഇൻസ്റ്റൻസിലെE യെ ആശ്രയിക്കേണ്ടതില്ല അതിനാൽ ഈ ലിമിറ്റുകൾ മാറുമോ വിദ്യാർത്ഥി 0 അതിനാൽ കോസാലിറ്റികാരണം ഇത് 0 ആവും അതേ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഉയർന്ന പരിധി t ആയി പരിമിതപ്പെടുത്താൻ പോവുന്നു അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചർ ടൈം ഇൻസ്റ്റൻസിലെ E പോലെ ആവും ഇതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ന് എഴുതിയാൽ അതെന്താണ് സൂചിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള എപ്സിലോൺ ആയിരിക്കും അത് സാറ്റിസ്ഫൈചെയ്യുന്നത് ആയാൽ എന്താണ് ന്റെ മൂല്യം ഏത് വ്യവസ്തയിൽ ആണ് എനിക്ക് ഈ ലളിതമായ റിലേഷൻ കിട്ടുക കോൺവല്യൂഷൻ റിലേഷനിലേക്ക് നോക്കുക വിദ്യാർത്ഥി ഡെൽറ്റ അതേഡെൽറ്റ ഫങ്ക്ഷൻ അതിനാൽ എന്നിട്ട് ഈ കോൺവല്യൂഷൻ എനിക്ക് ലളിതമായ റിലേഷൻ തരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻസിഡന്റ് റേഡിയേഷനോട് തൽക്ഷണം പ്രതികരിക്കുന്ന ഒരു മെറ്റീരിയൽആണ് ഇത് കോൺവല്യൂഷന് ഇൻപുട് നൊപ്പം ഒരു ഇമ്പൾസ് റെസ്പോൺസ്ഉണ്ട് ഇമ്പൾസ് റെസ്പോൺസ്ഒരു ഡെൽറ്റ ഫങ്ക്ഷൻആണെങ്കിൽ അതായത് റെസ്പോൺസ് തൽക്ഷണം ആയിരിക്കും അത് യാഥാർഥ്യബോധ്യം ഇല്ലാത്തതാണ് ഒരു മെറ്റീരിയലുംതലക്ഷണം പ്രതികരിക്കില്ല സ്പ്രിംഗ്സ് പോലും നിങ്ങൾ ഫോഴ്സ് പ്രയോഗിക്കാതെ അതായത് തലക്ഷണം ഓസ്സിലേറ്റിങ് ആരംഭിക്കുന്നില്ല കുറച്ചു സമയം എടുക്കും അത് പോലെ നിങ്ങൾ ഫോഴ്സിങ് ഫങ്ക്ഷൻ മാറ്റിയാൽ അത് തലക്ഷണം നിർത്തില്ല അത് കുറച്ചു നേരം പോയിട്ടേ നിൽക്കൂ അതായത് പ്രകൃതിയിൽ ഒന്നും തൽക്ഷണം ഇല്ല ഇതാണ് നമ്മൾ ഉടനീളം ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ റിയലിസ്റ്റിക്സ് മെറ്റീരിയലുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു തിയറി ഉണ്ടാക്കും നിങ്ങളുടെ ഇന്റഗ്രൽ ഇക്വേഷൻസിന്റെകേസിൽ ഇത് ഒരു ഇഷ്യൂ അല്ല കാരണംഅവിടെ ഞാൻ സിംഗിൾ ഫ്രീക്വൻസി ആണ് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ഞാൻ അനുമാനിച്ചു ഞാൻ പരോക്ഷമായി ഫ്രീക്വൻസി ഡോമൈനിൽ പ്രവർത്തിച്ചു അത് മനസ്സിലാക്കാതെയാണ് ഞാൻ ഈ റിലേഷൻ ഉപയോഗിച്ചത് എന്നിട്ട് ആ ഫ്രീക്വൻസി യിൽ ഞാൻ എപ്സിലോണിന്റെ മൂല്യം ഇട്ടു അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല പ്രശ്നം ഇപ്പൊഴാണ് വരുന്നത്ഞാൻ വ്യക്തമായി ടൈം ഡോമെയിനിൽ ആയിരിക്കുമ്പോൾ ടൈമിൽ D യും E യും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഡിഫറെൻഷിയൽ രൂപത്തിലുള്ള മാക്സ്വെൽസ് ഇക്വേഷന് maxwells equation ടൈം വേണം ഇതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ട പ്രധാന ഇക്വേഷൻ എന്ന് നമുക്ക് അനുമാനിക്കാം നമ്മൾ ഈ ഇക്വേഷൻ FDTD യിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചു നോക്കാം നിങ്ങളുടെ Yee സെൽ ഓർമിക്കുക അവിടെ ടൈമിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട് സ്പേസിലും ഒരു അപ്ഡേറ്റ് ഉണ്ട് അതിനാൽ അവിടെ Yee സെൽടൈമും സ്പേസും അപ്ഡേറ്റ് ഉണ്ട് ഉദാഹരണമായി കാൽക്യൂലേറ്റ് ചെയ്യാൻ ന്റെ എത്ര പാസ്സ്ഡ് വാല്യൂസ്സംഭരിക്കേണ്ടതുണ്ട് ഒരേ ഒരു പ്രീവിയസ് ടൈം ഇൻസ്റ്റന്റ് പിന്നെ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഒരേ ഒരു പ്രീവിയസ് ടൈം ഇൻസ്റ്റന്റ് ഇവിടെ ഈ റിലേഷനിൽ കാണില്ല എന്റെ കമ്പ്യൂട്ടേഷന്റെ മെമ്മറി ആവശ്യകതകളുടെ കാര്യത്തിൽ അതെന്താണ് നിങ്ങളോട് പറയുന്നത് എനിക്ക് ഫീൽഡ്സിന്റെ ഹിസ്റ്ററി സ്റ്റോർ ചെയ്യേണ്ടതില്ല എനിക്ക് അത് ചില പ്ലോട്ടിങ്ന് മാത്രമേ ആവശ്യമുള്ളൂ പക്ഷെ ഫ്യൂച്ചർ ടൈം ഇൻസ്റ്റൻസ് കാൽക്യൂലേറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ട എന്നിരുന്നാലും ഇത് ഇപ്പോൾ നിങ്ങളോട് മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഈ ഇക്വേഷൻ ഡിസ്ക്രിടൈസ് ചെയ്താൽ 0 ൽ നിന്നും t ലേക്ക് പോവും എനിക്ക് ടൈം t യിൽ D വേണമെങ്കിൽ എനിക്ക് ആ ടൈം ഇൻസ്റ്റന്റ് ലെ ഇലക്ട്രിക് ഫീൽഡ്മാത്രം പോരാ മുഴുവൻ ഹിസ്റ്ററിവേണം അല്ലെങ്കിൽ എങ്ങനെ ആ ടൈം ഇൻസ്റ്റന്റിൽ D കാൽകുലേറ്റ് ചെയ്യും അതിനാൽ ഇപ്പോൾ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് കിട്ടാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ മുഴുവൻ ടൈം ഹിസ്റ്ററി യും ആവശ്യം ഉണ്ട് എനിക്ക് എല്ലാം നേരത്തെ വേണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ഇന്റഗ്രൽ കാൽക്യൂലേറ്റ് ചെയ്യും അതൊരു പ്രശ്നം ആണോ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇത് Yee ഗ്രിഡിലെഓരോ പോയിന്റിലും ആവശ്യമുണ്ട് ഒരു പോയിന്റിൽ മാത്രമല്ല അതിനാൽ ഓരോ പോയിന്റിലും മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് ഹിസ്റ്ററിയും സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണം അത് പ്രായോഗികമല്ല ഇത് നോക്കുമ്പോൾ നിങ്ങൾ FDTD വേണ്ടെന്ന് വെക്കും കാരണം ഇത്രയധികം സ്റ്റോർ ചെയ്യാൻ സാധ്യമല്ല അത്രയും സമയത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സിമുലേഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയൂപിന്നെ നിങ്ങളുടെ സമയം തീരും അങ്ങനെ ഒരു അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വിദ്യാർത്ഥി എണ്ണം കുറക്കണം ടൈം ഹിസ്റ്ററി യുടെ എണ്ണം കുറക്കുക വിദ്യാർത്ഥി സമയം അതൊരു വഴിയാണ് നിങ്ങൾക്ക് ചില അപ്രോക്സിമേഷൻ പിശകുകൾ നേരിടേണ്ടി വരും ഇത് കൈകാര്യം ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇത് ന്യൂമറിക്കൽ പോലെ ഉണ്ട് ഈ ഇന്റഗ്രൽ നടപ്പിലാക്കാൻ ഉള്ള ഒരു വഴിയാണ് ന്യൂമറിക്കൽ ക്വാഡ്രാച്വർ പക്ഷെ അത് നിങ്ങളെ സഹായിക്കില്ല ഈ ഇന്റഗ്രേഷൻ ഒരു വെല്ലുവിളിയല്ല അതേ അപ്പോൾ ക്വാഡ്രാച്വർ റൂൾ ഇവിടെ പ്രയോഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോളിനോമിയൽ അഥവാ ഫങ്ക്ഷൻനല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ മാത്രമേ ക്വാഡ്രാച്വർ റൂൾ ഇവിടെ പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ എത്ര പോയിന്റുകൾ എന്നതിനെ ആശ്രയിച്ച് പോളിനോമിയൽ ഡിഗ്രിവരെ ഇത് കൃത്യമായിരിക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് എത്ര മാത്രം കുതിച്ചുയരും എന്ന് നിങ്ങൾക്ക് അറിയില്ല വിദ്യാർത്ഥി പിശകുകൾ കൂടും പിശകുകൾ കൂടി കൊണ്ടിരിക്കും ഉദാഹരണമായി ഒരു ഇലക്ട്രിക് ഫീൽഡ്സൈൻ വേവ് ആണെങ്കിൽ ആ സൈൻ വേവിനെപ്രതിനിധീകരിക്കാൻ എത്ര പോളിനോമിയൽസ്ആവശ്യമുണ്ട് വളരെ കൂടുതൽ വേണം അവസാനം അത് കോൺവെർജ് ആവില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോവുന്നത്കാൽക്കുലേഷനിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനേക്കാൾ ഫ്രീക്വൻസി ഡിപെൻഡൻസ് of പെർമിറ്റിവിറ്റി യുടെ ഒരു ലളിതമായ മോഡൽ അനുമാനിക്കുംമുഴുവൻ ടൈം ഹിസ്റ്ററിയുo സ്റ്റോർ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെങ്കിൽ ഒരു ഡിസ്പെഴ്സിവ് മെറ്റീരിയലിനെ യാഥാർഥ്യമായി മോഡൽ ആക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതേ സമയം മുഴുവൻ ടൈം ഹിസ്റ്ററി യെ സ്റ്റോർ ചെയ്യുകയും വേണ്ട ഇതിന് സാധിക്കുമെങ്കിൽ എനിക്ക് ഡിസ്പേഴ്സിവ് മെറ്റീരിയലിൽ FDTD പ്രയോഗിക്കാൻ സാധിക്കും പ്ലാസ്മോണിക്സ് പോലെ ഉള്ളവയുടെ മുഴുവൻ ഫീൽഡുംമാതൃക ആക്കാൻ നമുക്ക് കഴിയണം ഫ്രീക്വൻസി യുടെ ഫങ്ക്ഷൻ ആയി ഈ എപ്സിലോൺ r ന്റെ വളരെ പൊതുവായ ഒരു മാതൃക യെ കുറിച്ചാണ് നമ്മൾ ഈ ഒമ്പതാം അദ്ധ്യായത്തിൽ ചർച്ച ചെയ്തത്വിവിധ റിസോനൻസിന്റെ സംഗ്രഹമായി നമ്മൾ ചെയ്തത് അതിന്റെ ഒരു ലളിതമായ ഒരു പതിപ്പ് അനുമാനിക്കും ഇത് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ തൌ ന്റെ എപ്സിലോൺ r 0 ആയി ഇട്ടാൽ അതായത് ഇലക്ട്രിക് ഫീൽഡ് എപ്പഴും അവിടെ ഉണ്ടാവും ആ ഫീൽഡ് നോടുള്ള മെറ്റീരിയലിന്റെ പ്രതികരണം എന്താണെന്ന് പറയുന്നു വിദ്യാർത്ഥി അത് നോൺ സീറോ ആണെങ്കിൽ ഇത് എവിടെയും നോൺ സീറോ ആവില്ല കാരണം അവിടെ ഫീൽഡ് ഉള്ളിടത്തോളം കാലംഅവിടെ ഈ പ്രതികരണം ഉണ്ടാവും അത് പൂജ്യം ആവില്ല അത് നിങ്ങളുടെ കയ്യിൽ അല്ല അത് ഭൌതികമാണ്അത് പ്രകൃതി സ്വത്ത് ആണ് ഏറ്റവും ലളിതമായ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുംഡ്റൂഡ് മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിദ്യാർത്ഥി ലോറെന്റ്സിയൻ ലോറെന്റ്സിയൻ മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുംഡീബൈമോഡലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും